നമസ്കാരം ടാക്സോണമി ടേബിളിനെക്കുറിച്ചുള്ള യൂണിറ്റ് 15 ലേക്ക് സ്വാഗതം പഠനത്തിലെ അഫക്ടീവ് സൈക്കോമോട്ടർ ഡൊമെയ്നുകളുടെ സ്വഭാവവും പ്രാധാന്യവും കഴിഞ്ഞ യൂണിറ്റിൽ നാം മനസിലാക്കിയിരുന്നുവെങ്കിലും കോഗ്നിറ്റീവ് ഡൊമെയ്ൻ പഠനത്തോടൊപ്പം അഫക്ടീവ് ഡൊമെയ്ൻ പഠനത്തെ സമന്വയിപ്പിക്കുന്നതിന് മതിയായ രീതികളും പ്രക്രിയകളും ഇതുവരെ നമ്മുടെ പക്കലില്ലെന്നും നാം പറഞ്ഞു ഈ മൊഡ്യൂളിന്റെ പ്രധാന ഉദ്ദേശം ഔട്ട്കംസ് അഥവാ ഫലങ്ങൾ അസ്സെസ്സ്മെന്റ് അഥവാ വിലയിരുത്തൽ ഇൻസ്ട്രക്ഷൻ അഥവാ നിർദ്ദേശം എന്നിവയ്ക്കിടയിൽ വിന്യാസം നേടുന്നതിൽ ടാക്സോണമി ടേബിളിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക ഏത് കോഴ്സിനും മൂന്ന് ഘടകങ്ങളുണ്ടെന്ന കാര്യം ശ്രദ്ധിക്കുക ഒന്ന് ഔട്ട്കംസ് അഥവാ ഫലങ്ങളാണ് വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് ഫലങ്ങളാണ് അപ്പോൾ ആ നേട്ടം അളക്കാൻ നമുക്ക് കഴിയണം വിദ്യാർത്ഥി അത് നേടിയിട്ടുണ്ടോ ഇല്ലയോ ഫലങ്ങളുടെ അസ്സെസ്സ്മെന്റ് അഥവാ വിലയിരുത്തലിലൂടെയാണ് ഇത് നടത്തുന്നത് മൂന്നാമത്തേത് എന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് എന്റെ വിലയിരുത്തലുകളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ ഞാൻ സൌകര്യമൊരുക്കണം അതിലൂടെ നാം ഫലം കൈവരിക്കുന്നു അതിനാൽ വിശാല അർത്ഥത്തിൽ ഏത് കോഴ്സിനും ഈ മൂന്ന് ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ മൂന്ന് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് കാണാൻ കഴിയും ഔട്ട്കംസ് അസ്സെസ്സ്മെന്റ് പിന്നെ ഇൻസ്ട്രക്ഷൻ അങ്ങനെ ചെയ്യുമ്പോൾ ടാക്സോണമി ടേബിൾ ഒരു ഉപയോഗപ്രദമായ ഉപകരണമാണ് നിങ്ങൾക്ക് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നതിന് പകരമാവില്ല പക്ഷേ നിങ്ങളുടെ നിർദ്ദേശത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കാൻ കഴിയും ഒന്നുകിൽ ഫലങ്ങൾ ശരിയായ തലത്തിൽ കണ്ടെത്തുക അല്ലെങ്കിൽ ഫലങ്ങളുമായി സമന്വയിപ്പിച്ച് വിലയിരുത്തൽ നടത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥിക്ക് ചെയ്യാൻ കഴിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി ചേർന്നാണ് നിങ്ങളുടെ നിർദ്ദേശമെന്ന് ഉറപ്പുവരുത്തുക അതിനാൽ ഇത് ഈ യൂണിറ്റിന്റെ വിശാലമായ ഉദ്ദേശമാണ് ശരി വീണ്ടും മനസിലാക്കാൻ കോഗ്നിറ്റീവ് ഡൊമെയ്നിന് രണ്ട് തലങ്ങളുണ്ട് അതായത് കോഗ്നിറ്റീവ് പ്രക്രിയകൾ നാം അവയെ ലെവലുകൾ എന്നും വിളിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട സാഹിത്യത്തിൽ കോഗ്നിറ്റീവ് പ്രക്രിയകളും കോഗ്നിറ്റീവ് നിലകളും പരസ്പരം ഉപയോഗിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നോലെഡ്ജ് കാറ്റഗറീസ് അഥവാ വിജ്ഞാന വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ നമുക്കുള്ളത് ആറ് കോഗ്നിറ്റീവ് പ്രക്രിയകളും നാല് പൊതുവായ അറിവിന്റെ വിഭാഗങ്ങളും ആണ് ആറും നാലും സയൻസ് മാത്തമാറ്റിക്സ് ഹ്യുമാനിറ്റീസ് സോഷ്യൽ സയൻസ് മാനേജ്മെന്റ് എന്നീ കോഴ്സുകൾ കാരണം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ ഈ മേഖലകളിലെല്ലാം നമുക്ക് കോഴ്സുകൾ ഉണ്ട് ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ അവ ഏകദേശം 20 അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് നാല് വിഭാഗത്തിലുള്ള അറിവുകളുമായി മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത് അതിനാൽ നിങ്ങൾ സയൻസ് മാത്തമാറ്റിക്സ് ഹ്യുമാനിറ്റീസ് സോഷ്യൽ സയൻസ് മാനേജ്മെന്റ് എന്നിവയിലെ കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ ആറ് കോഗ്നിറ്റീവ് പ്രക്രിയകളെക്കുറിച്ചും നാല് പൊതുവായ അറിവുകളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അതിനാൽ ഒരു ഉപകരണമായി വർത്തിക്കാൻ കഴിയുന്ന ആറ് വരികളുള്ള കോഗ്നിറ്റീവ് പ്രക്രിയകളും നാല് വിഭാഗത്തിലുള്ള അറിവുകളുമുള്ള ഒരു പട്ടികയായി അവയെ എന്തുകൊണ്ട് ഒന്നിച്ച് ചേർത്തുകൂട നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ധ്യാപനത്തിന്റെയും പഠനത്തിന്റെയും നിരവധി പ്രശ്നങ്ങളുമായി ഇടപെടാൻ ഇത് സഹായിക്കും അതിനാൽ ഇത് ഒരു ലളിതമായ പട്ടികയാണ് അത് സൃഷ്ടിക്കുക കോഗ്നിറ്റീവ് പ്രക്രിയകൾ റിമെംബെർ തുടങ്ങി ക്രിയേറ്റ് വരെയും വിജ്ഞാന വിഭാഗങ്ങൾ ഫാക്ട്വൽ കോൺസെപ്റ്റുവൽ പ്രോസെഡ്യൂറൽ എന്നിവയും ആണ് ഉദാഹരണത്തിന് ഓരോ കോഗ്നിറ്റീവ് പ്രക്രിയയും ഒരു കൂട്ടം പ്രവർത്തന ക്രിയകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫലത്തെക്കുറിച്ച് നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രസ്താവനയും ഈ കോഗ്നിറ്റീവ് പ്രക്രിയകളിലൊന്നിൽ നിന്നുള്ള ചില പ്രവർത്തന ക്രിയയിൽ നിന്ന് ആരംഭിക്കും ഈ കോഗ്നിറ്റീവ് പ്രക്രിയ വിജ്ഞാനത്തിന്റെ ചില ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കൂടാതെ വിജ്ഞാനത്തിന്റെ ഘടകങ്ങൾ ഈ നാല് വിഭാഗങ്ങളിൽ ഒന്നോ അതിലധികമോ ഭാഗങ്ങളിൽ നിന്ന് വരാം അതാണ് ടാക്സോണമി ടേബിൾ അഥവാ പട്ടികയുടെ ഉദ്ദേശ്യം ഇതിന്റെ ചില സവിശേഷതകളിലേക്ക് നമുക്ക് പോകാം ടാക്സോണമി പട്ടികയുടെ ഒരു സെല്ലിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ കോഗ്നിറ്റീവ് പ്രക്രിയ 1 മുതൽ 6 വരെയും അതിന്റെ വിജ്ഞാന വിഭാഗം 1 മുതൽ 4 വരെയും ഉള്ള അക്കങ്ങളാൽ സൂചിപ്പിക്കാം അതിനാൽ നിങ്ങൾക്ക് ഒരു സെൽ ഉണ്ടായിരിക്കാം നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയട്ടെ സെൽ 2 2 ആകുമ്പോൾ എന്തുസംഭവിക്കുന്നു അത് 2 2 ആകുമ്പോൾ അതായത് നിങ്ങൾ പ്രസ്താവിക്കുന്ന ചില കോൺസെപ്റ്റുകളുടെ ആശയങ്ങൾ നിങ്ങൾ മനസിലാക്കുന്നു അതിനാൽ എനിക്ക് ഇത് 2 2 എന്ന് ലേബൽ ചെയ്യാൻ കഴിയും അതുപോലെ ഇത് 3 2 അല്ലെങ്കിൽ 3 3 ആയിരിക്കും അതിനാൽ ഞങ്ങൾ ഒരു സെൽ തിരിച്ചറിയാനായി അത് ലേബൽ ചെയ്യുന്നു കൂടാതെ കോഗ്നിറ്റീവ് പ്രക്രിയകൾക്കിടയിൽ ഒരു ശ്രേണിയും ഉണ്ട് എന്താണ് ഇതിനർത്ഥം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തും ഏവാല്യൂവേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉയർന്ന തലമാണ് ഏവാല്യൂവേറ്റ് അനലൈസ് ചെയ്യുന്നതിനേക്കാളും ഉയർന്ന തലത്തിലാണ് അതിനാൽ എന്തുസംഭവിക്കുന്നു ഞാൻ ഇവിടെ ഒരു പ്രവർത്തനം തിരിച്ചറിഞ്ഞാൽ അപ്ലൈയും പ്രോസെഡ്യൂറലും എന്ന് പറയട്ടെ അപ്പോൾ അണ്ടർസ്റ്റാൻഡ് റിമെംബർ എന്നിവയിലെ കോഗ്നിറ്റീവ് പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുന്നു അതായത് ഇവയെ നമ്മുടെ പ്രത്യേകം പരിഗണിക്കേണ്ട സെല്ലുകളായി ഉൾപ്പെടുതേണ്ടതില്ല ഞാൻ ഇവിടെ എന്തെങ്കിലും എഴുതുകയോ അല്ലെങ്കിൽ ഞാൻ ഒരു പ്രവർത്തനം എഴുതുകയോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു പ്രവർത്തനം തിരിച്ചറിയുകയോ ചെയ്താൽ ഈ താഴ്ന്ന നാല് നില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സൂചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഞാൻ അവയെ പ്രത്യേകം തിരിച്ചറിയേണ്ടതില്ല ഉദാഹരണത്തിന് അണ്ടർസ്റ്റാൻഡ് എന്നതിലെ ഒരു പ്രവർത്തനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അനലൈസിലെ ഒരു പ്രവർത്തനം കൂടുതൽ സങ്കീർണ്ണമാണ് അതിനാൽ നിങ്ങൾ ഈ കോഗ്നിറ്റീവ് തല ശ്രേണിയിലേക്ക് നീങ്ങുമ്പോൾ പ്രവർത്തനം കൂടുതൽ സങ്കീർണ്ണമാകും സങ്കീർണ്ണതയെ ബുദ്ധിമുട്ടിൽ നിന്ന് വേർതിരിച്ചു മനസിലാക്കണം എനിക്ക് ഇവിടെ വളരെ ബുദ്ധിമുട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും നടത്താൻ കഴിയും അത് ബുദ്ധിപരമായി ഒരു താഴ്ന്ന നിലയിലുള്ള പ്രവർത്തനമാകാം ഉദാഹരണത്തിന് എല്ലാ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങൾ ആരെങ്കിലും നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് അത് ബുദ്ധിമുട്ടാണ് പക്ഷേ സങ്കീർണ്ണമല്ല ഇവിടെ ഒരു പ്രവർത്തനം ലളിതമായിരിക്കാം അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ ഇതിന് ഉയർന്ന തലത്തിലുള്ള സങ്കീർണ്ണതയുണ്ട് അതിനാൽ ഒരാൾക്ക് പരിചയപ്പെടേണ്ട രണ്ട് വാക്കുകൾ കോംപ്ലക്സിറ്റി അഥവാ സങ്കീർണ്ണത ടിഫിക്കൽറ്റി അഥവാ ബുദ്ധിമുട്ട് നിർഭാഗ്യവശാൽ കോംപ്ലക്സിറ്റി എന്നത് ടിഫിക്കൽറ്റി എന്നത്തിൻറെ പര്യായമാണെന്ന് പല അധ്യാപകരും കരുതുന്നു മാത്രമല്ല സങ്കീർണ്ണമായ പ്രവർത്തനങ്ങളെ യഥാർത്ഥ നിർദ്ദേശത്തിൽ നിന്നും വിലയിരുത്തലിൽ നിന്നും എങ്ങനെയെങ്കിലും തടയുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുന്നുവെന്ന് അവർ പറയുന്നു ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും കാരണം ഉയർന്ന വൈജ്ഞാനിക തലങ്ങളിലുള്ള ലളിതമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നൽകാൻ കഴിയും അവ ബുദ്ധിമുട്ടായിരിക്കില്ല പക്ഷേ വിദ്യാർത്ഥികൾ ഈ സങ്കീർണ്ണ പ്രവർത്തനങ്ങൾ അനുഭവിച്ചറിയണം അതിനാൽ പഠിക്കേണ്ട ഒരു കാര്യം കോംപ്ലക്സിറ്റിയും ടിഫിക്കൽറ്റിയുമാണ് പിന്നീടുള്ള മൊഡ്യൂളിലെ വിലയിരുത്തലിന്റെ പ്രശ്നം നോക്കുമ്പോൾ നാം ഇത് കൂടുതൽ വിശദീകരിക്കും ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ കാര്യത്തിൽ നമുക്ക് നാല് അധിക വിജ്ഞാന വിഭാഗമുണ്ടെന്ന് കണ്ടെത്തി ഇപ്പോൾ നമുക്ക് എബിവി ടാക്സോണമി ടേബിൾ ഉണ്ട് ആൻഡേഴ്സൺ ബ്ലൂം വിൻസെന്റി ടാക്സോണമി ടേബിൾ എന്ന് ഇതിനെ വിളിക്കുന്നു ഇത് 6 ബൈ 8 ടേബിൾ ആയിരിക്കും 6 കോഗ്നിറ്റീവ് പ്രക്രിയയും 8 വിഭാഗത്തിലുള്ള വിജ്ഞാനവും ഇതിൽ ഉൾപ്പെടുന്നു എബിവി പട്ടികയുടെ സവിശേഷതകൾ എബി പട്ടികയുടെ അതേ സവിശേഷതകൾ തന്നെയാണ് അതായത് ശ്രേണി സങ്കീർണ്ണത ബുദ്ധിമുട്ട് എന്നിവ കണക്കിലെടുക്കുമ്പോൾ എബിവി പട്ടികയിലും ഈ സവിശേഷതകളെല്ലാം സമാനമാണ് പട്ടിക എങ്ങനെ കാണപ്പെടും പട്ടിക നിങ്ങൾക്ക് സമാനമാണെന്ന് തോന്നുന്നു 6 കോഗ്നിറ്റീവ് ലെവലുകൾ ഇവിടെ 4 പൊതു വിഭാഗങ്ങൾ തുടർന്ന് എഞ്ചിനീയറിംഗിന് പ്രത്യേകമായി 4 വിഭാഗങ്ങൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് സയൻസ് കോഴ്സുകൾ എവിടെയാണ് വരുന്നത് കാരണം എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എഞ്ചിനീയറിംഗ് സയൻസ് കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമാണ് എഞ്ചിനീയറിംഗ് സയൻസ് കോഴ്സുകൾ എന്തൊക്കെയാണ് എഞ്ചിനീയറിംഗ് സയൻസ് കോഴ്സുകളുടെ ഉദാഹരണങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് തെർമോഡൈനാമിക്സ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി നെറ്റ്വർക്ക് തിയറി എയറോഡൈനാമിക്സ് അത്തരം നിരവധി കോഴ്സുകൾ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു ഓരോ ബ്രാഞ്ചിലും കുറഞ്ഞത് 4 5 എഞ്ചിനീയറിംഗ് സയൻസ് കോഴ്സുകളുണ്ട് ഇപ്പോൾ തന്നെ അവ വാഗ്ദാനം ചെയ്യുന്നതുപോലെ എഞ്ചിനീയറിംഗ് പരിജ്ഞാനത്തിന്റെ നാല് വിഭാഗങ്ങളെ അവർ അഭിസംബോധന ചെയ്യുന്നില്ല അപ്പോൾ പ്രശ്നം വരുന്നു മുമ്പത്തെ എബി ടാക്സോണമി പട്ടികയ്ക്ക് കീഴിലാണോ അല്ലെങ്കിൽ എബിവി ടാക്സോണമി പട്ടികയ്ക്ക് കീഴിലാണോ ഞാൻ അവയെ തരംതിരിക്കേണ്ടത് ഏതാണ് ഞാൻ കൈകാര്യം ചെയ്യേണ്ടത് എന്നാൽ ഈ എഞ്ചിനീയറിംഗ് സയൻസ് കോഴ്സുകളിലെ ഒരു അദ്ധ്യാപകന് എഞ്ചിനീയറിംഗിനോടുള്ള താൽപ്പര്യവും അഭിനിവേശവും കാരണം എഞ്ചിനീയറിംഗ് സയൻസ് കോഴ്സുകളിൽ പോലും എഞ്ചിനീയറിംഗ് പരിജ്ഞാനത്തിന്റെ ചില വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്യാൻ തിരഞ്ഞെടുക്കാം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എഞ്ചിനീയറിംഗ് സയൻസ് കോഴ്സുകൾക്കും ബാധകമായ 6 ബൈ 8 എബിവി ടാക്സോണമി ടേബിൾ നമ്മൾ പരിഗണിക്കും കോഴ്സിനെ പൂർണ്ണമായും ഒരു സയൻസ് കോഴ്സായി കൈകാര്യം ചെയ്യാൻ ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ അത് അവഗണിക്കുകയാണ് ഞാൻ ഈ 6 ബൈ 4 നോക്കുന്നില്ല അതായത് പകുതി സെല്ലുകളും ഞാൻ അതിൽ ഒരു പ്രവർത്തനവും നടത്തുന്നില്ല അതാണ് അർത്ഥമാക്കുന്നത് ചില ആളുകൾ ഇത് ഉപയോഗിക്കാൻ താൽപ്പര്യപ്പെടുന്നതിനാൽ എഞ്ചിനീയറിംഗ് സയൻസ് കോഴ്സുകൾക്കും 6 ബൈ 8 എബിവി ടാക്സോണമി ടേബിൾ ബാധകമാണെന്ന് നാം പറയും ഈ നിലപാടാണ് നാം സ്വീകരിക്കുന്നത് ഇപ്പോൾ ഒരിക്കൽ കൂടി ഒരു കോഴ്സിന്റെ മൂന്ന് ഘടകങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നത് ആവശ്യമാണ് ഒരു കോഴ്സിന്റെ അവസാനം വിദ്യാർത്ഥിക്ക് ചെയ്യാൻ കഴിയുന്നതിനെ പ്രതിനിധീകരിക്കുന്ന കോഴ്സ് ഔട്ട്കംസ് ആണ് അസൈൻമെന്റുകൾ ടെസ്റ്റുകൾ പരീക്ഷകൾ എന്നിവയിലൂടെ കോഴ്സിന്റെ ഔട്ട്കംസ് വിലയിരുത്തപ്പെടുന്നു അസൈൻമെന്റുകൾ ധാരാളം ആകാം ടെസ്റ്റുകൾ പല ഇനങ്ങൾ ആകാം കോഴ്സ് ഔട്ട്കംസ് നേടാൻ പഠിതാക്കളെ സഹായിക്കുന്നതിനുള്ള ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് അഥവാ പ്രബോധന പ്രവർത്തനങ്ങൾ അപ്പോൾ ഇവയാണ് മൂന്ന് ഘടകങ്ങൾ ഈ മൂന്ന് ഘടകങ്ങളും പരസ്പരം വിന്യസിക്കണം അതിലേക്കാണ് നാം വരുന്നത് വിന്യാസം എന്നാൽ വിലയിരുത്തൽ കോഴ്സ് ഔട്ട്കംസുമായി യോജിക്കുന്നതായിരിക്കണം ഉദാഹരണത്തിന് ഒരു സങ്കീർണ്ണ സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യാൻ എന്റെ വിദ്യാർത്ഥിക്ക് കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ അല്ലെങ്കിൽ ഒരു നൽകിയ സർക്യൂട്ട് ഉപകരണങ്ങളുടെ ഭൌതികശാസ്ത്രം എന്നിവ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടോ എന്നത് ഉപയോഗിച്ച് വിലയിരുത്താൻ കഴിയില്ല എന്റെ വിലയിരുത്തൽ അവയിൽ മാത്രം പരിമിതപ്പെടുത്താൻ എനിക്ക് കഴിയില്ല അദ്ദേഹം ചില സങ്കീർണ്ണ സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുന്നത് വിലയിരുത്തലിൽ ഉൾപ്പെടുത്തണം വിന്യാസം എന്നത് കൊണ്ട് നാം ഇതാണ് അർത്ഥമാക്കുന്നത് അതുപോലെ നിർദ്ദേശം മൂല്യനിർണ്ണയവുമായി യോജിക്കുന്നതായിരിക്കണം എന്റെ വിദ്യാർത്ഥിക്ക് ഒരു സങ്കീർണ്ണ സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ലാസിലെ ചില സങ്കീർണ്ണ സർക്യൂട്ടുകൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നും യഥാർത്ഥത്തിൽ രൂപകൽപ്പന ചെയ്യാമെന്നും ഞാൻ അവനോട് പറയണം ശരിയായ വിന്യാസം നടക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഒരു കോഴ്സിന്റെ ഒരു ഘടകത്തെ അതിന്റെ വൈജ്ഞാനിക തലത്തിൽ ശരിയായ വിന്യാസം നടക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഒരു കോഴ്സിന്റെ ഒരു ഘടകത്തെ അതിന്റെ വൈജ്ഞാനിക തലത്തിൽ ടാഗുചെയ്യാനാകും അതിന്റെ പ്രവർത്തന ക്രിയ നോക്കിയാൽ അത് ഏത് വൈജ്ഞാനിക തലത്തിൽ പെടുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും അതുപോലെ തന്നെ വിജ്ഞാന വിഭാഗങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയും കോഴ്സിന്റെ ഏത് ഘടകത്തിലും ഒരാൾ ഒന്നിലധികം വിജ്ഞാന വിഭാഗങ്ങളുമായി ഇടപെടുന്നുണ്ടെന്ന് ഓർമ്മിക്കുക കോഴ്സ് ഫലങ്ങൾ എഴുതാൻ ആരംഭിക്കുമ്പോൾ ഇനിപ്പറയുന്ന യൂണിറ്റുകളെക്കുറിച്ച് നാം കൂടുതൽ വിശദീകരിക്കും ടാഗിംഗിനെ അടിസ്ഥാനമാക്കി ടാക്സോണമി പട്ടികയിലെ ഒന്നോ അതിലധികമോ സെല്ലുകളിൽ ഒരു ഘടകം കണ്ടെത്താൻ കഴിയും നിങ്ങൾ ഒരു ഘടകത്തെ എങ്ങനെ ടാഗുചെയ്തു എന്നതിനെ ആശ്രയിച്ച് ഉദാഹരണത്തിന് ഇത് അപ്ലൈ കൂടാതെ കോൺസെപ്റ്റുവൽ ആണെന്ന് ഞാൻ പറയുന്നു അതിനാൽ എനിക്ക് ഉടനടി ടാക്സോണമി ടേബിളിലെ പ്രത്യേക സെല്ലിൽ 3 ൽ അപ്ലൈ 2 ൽ കോൺസെപ്റ്റുവൽ എന്നിവ ഉൾപ്പെടുത്താം അതിനാൽ ഇത് 6 ബൈ 8 പട്ടികയുടെ 3 2 സെൽ ആയിരിക്കും ഒരു കോഴ്സിന്റെ ഘടകങ്ങൾ തമ്മിലുള്ള വിന്യാസം അർത്ഥമാക്കുന്നത് ഞാൻ മൂന്ന് ഘടകങ്ങളെയും ടാക്സോണമി പട്ടികയുടെ ഒരേ സെല്ലിൽ ഇടുന്നു എന്നാണ് വിന്യാസം എന്നാണ് ഞങ്ങൾ അർത്ഥമാക്കുന്നത് നമുക്ക് ഇത് നോക്കാം എബിവി ടാക്സോണമി ടേബിളിൽ വിന്യാസം നാം 6 ബൈ 8 ആയി ഇട്ടിരിക്കുന്നു ഇവിടെ സിഒ എന്നാൽ കോഴ്സ് ഔട്ട്കം എഐ എന്നാൽ അസസ്മെൻറ് ഐറ്റംസ് ഐഎ എന്നാൽ ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് എന്നാണ് ക്ലാസ് മുറിയിലോ ലബോറട്ടറിയിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളിലൂടെയോ ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ പക്കലുള്ള ഏത് സംവിധാനവും നേരിട്ടുള്ള അധ്യാപനം അല്ലെങ്കിൽ ഫ്ലിപ്പുചെയ്ത ക്ലാസ് റൂം അല്ലെങ്കിൽ ഓൺലൈൻ നിങ്ങൾ സംസാരിക്കുന്ന എന്തും ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് അർത്ഥമാക്കുന്നത് അധ്യാപകനിൽ നിന്ന് വിദ്യാർത്ഥിയിലേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ അറിവ് കൈമാറ്റം എന്നതാണ് ഇപ്പോൾ അതിനർത്ഥം CO3 അണ്ടർസ്റ്റാൻഡ് പിന്നെ പ്രോസെഡ്യൂറൽ എന്നിവയിൽ സ്ഥിതിചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ മൂല്യനിർണ്ണയ ഇനങ്ങളിൽ അസൈൻമെന്റുകൾ ടെസ്റ്റുകൾ പരിശോധന എന്നിവ ഉൾപ്പെടുന്നു അവയെല്ലാം ഒരേ സെല്ലിലാണ് സ്ഥിതിചെയ്യുന്നത് ശരി എന്റെ ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസും അതേ സെല്ലിലാണ് മൂന്നും ഒരേ സെല്ലിൽ ഒന്നായിരിക്കുമ്പോൾ നമുക്ക് ഒരു തികഞ്ഞ വിന്യാസം ഉണ്ടെന്ന് നാം കണക്കാക്കുന്നു വിന്യാസം എന്നത് കൊണ്ട് നാം ഇതാണ് അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് CO3 IA3 എന്നിവ ഒരേ സെല്ലിലാണെങ്കിലും AI3 എങ്ങനെയെങ്കിലും റിമെംബെർ പിന്നെ ഫക്ടുവൽ എന്നിയിവലാണെന്നു കരുതുക ഞാൻ ചില നിർവചനങ്ങൾ ചോദിക്കുകയും ഒരു സിദ്ധാന്തം പുനർനിർമ്മിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് AI3 ഇവിടേക്ക് നീങ്ങി AI3 ഇവിടെയുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ CO3 ഇവിടെയുണ്ട് എന്റെ മൂല്യനിർണ്ണയ ഇനങ്ങൾ ഇവിടെയുണ്ട് വ്യക്തമായും എന്റെ ഫലവും വിലയിരുത്തൽ ഇനങ്ങളും തമ്മിൽ ഒരു വിന്യാസവും ഇല്ല ഇതാണ് വിന്യാസം എന്നത് കൊണ്ട് നാം അർത്ഥമാക്കുന്നത് ഇപ്പോൾ സംഭവിച്ച മറ്റ് കാര്യങ്ങൾ നോക്കാം പ്രശ്നം ഇതാണ് എനിക്ക് എന്റെ CO4 ഉണ്ട് ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസും ഇവിടെയുണ്ട് പക്ഷെ സംഭവിക്കുന്നത് എനിക്ക് ഇവിടെ ചില AI4 ഉം മറ്റു ചില AI4 ഇവിടെയുമുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥമെന്താണ് എന്റെ അസൈൻമെന്റുകളോ ടെസ്റ്റ് ഇനങ്ങളോ അപ്ലൈ വിഭാഗത്തിൽ ഇല്ല എന്നാൽ അവ അണ്ടർസ്റ്റാൻഡ് പിന്നെ റിമെംബെർ എന്നീ വിഭാഗത്തിലാണ് ഇവ CO4 മായി ബന്ധപ്പെട്ടതാണെങ്കിലും അതിനർത്ഥം ഞാൻ ചോദിക്കുന്ന ഇനങ്ങൾ CO4 ന് പ്രസക്തമാണെങ്കിലും അവ ഇതുമായി യോജിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ രണ്ടിന്റെയും വിന്യാസം അവർ ഇവിടെയുള്ളതിനേക്കാൾ വളരെ കുറവാണ് ഉദാഹരണത്തിന് എന്റെ ഫലം ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ചില നടപടിക്രമങ്ങൾ പ്രയോഗിക്കുന്നതിനോ ബന്ധപ്പെട്ടതാണെങ്കിൽ എന്നാൽ എന്താണ് നടപടിക്രമമെന്നും അതിന്റെ സിദ്ധാന്തമെന്താണെന്നും ഞാൻ അറിഞ്ഞിരിക്കണം കൂടാതെ ചില വസ്തുതകൾ ഞാൻ ഓർക്കണം അതിനാൽ ഇവിടെ ഇനങ്ങൾ ടെസ്റ്റ് ഇനങ്ങൾ എന്നിവ കൈവശം വയ്ക്കുന്നതിന് ചില സാധ്യതയുണ്ട് എന്നാൽ ഈ സെല്ലിൽ AI4 ഇടാതിരിക്കുന്നതിന് ഒരു ഒഴികഴിവുമില്ല ഇത് സ്വീകാര്യമല്ല ഇപ്പോഴും അത് ഭാഗികമായി സ്വീകാര്യമാണെങ്കിലും ഇവിടെ AI4 ഇല്ലാത്തത് പൂർണ്ണമായും അസ്വീകാര്യമാണ് നിർഭാഗ്യവശാൽ ആളുകൾ രൂപകൽപ്പന ചെയ്യുന്ന ഭൂരിഭാഗം ചോദ്യപേപ്പറുകളിലും അതാണ് സംഭവിക്കുന്നത് അവ പ്രസക്തമാണെന്ന് തോന്നുന്നു ഒരേ വിഷയത്തെക്കുറിച്ച് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു പക്ഷേ ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ട വൈജ്ഞാനിക തലത്തിലല്ല ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കേസ് ഉണ്ട് നിങ്ങൾക്ക് CO5 അനലൈസ് പിന്നെ കോൺസെപ്റ്റുവൽ വിഭാഗത്തിലാണ് പക്ഷേ എന്റെ അസ്സെസ്സ്മെന്റ് ഐറ്റംസ് അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് താഴത്തെ നിലയിൽ ആണ് ഇത് ആകെത്തുകയാണ് കാരണം നിർദ്ദേശം തന്നെ ഒരു വിദ്യാർത്ഥിയെ വിശകലനം ചെയ്യാൻ പ്രാപ്തം ആക്കുന്നില്ല അപ്പോൾ CO5 തന്നെ നടപ്പാക്കലിന്റെ കാര്യത്തിൽ ഇത് ഒരു പരാജയമാണ് ശരി അതിനാൽ ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നു ഒരു അധ്യാപകൻ ഇത് ഒഴിവാക്കണം അത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും കാരണം ചിലപ്പോൾ ഞങ്ങൾ ഇത് അശ്രദ്ധമായി ചെയ്യുന്നു ഞാൻ ഒരു ചോദ്യപേപ്പർ രൂപകൽപ്പന ചെയ്യുമ്പോൾ സാഹചര്യത്തെ ആശ്രയിച്ച് ഞാൻ തിരഞ്ഞെടുത്ത സിഒയുമായി വിന്യസിക്കുന്ന ചില ഇനങ്ങൾ ഉൾപ്പെടുത്താൻ ഞാൻ മറന്നേക്കാം എല്ലാം ഒഴിവാക്കാൻ ഞങ്ങൾക്ക് ഓരോ മൂല്യനിർണ്ണയ ഇനവും ടാഗുചെയ്യാൻ കഴിയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ആവശ്യത്തിന് ഇനങ്ങളുണ്ടോയെന്ന് പരിശോധിക്കാൻ കഴിയും അവ പ്രസ്താവിച്ച CO യുമായി യോജിക്കുന്നു CO യുടെ അതേ തലത്തിൽ അസ്സെസ്സ്മെന്റ് ഐറ്റംസ് അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് എന്നിവ ഇല്ലാത്തത് സ്വീകാര്യമല്ലെന്ന് നാം വിശദീകരിച്ചത് അതാണ് അതിനാൽ ശരിയായ വിന്യാസത്തിന് കോഴ്സ് ഫലങ്ങളും അനുബന്ധ നിർദ്ദേശ പ്രവർത്തനങ്ങളും പൂർണ്ണമായ വിന്യാസത്തിലായിരിക്കണം അവ ഒരേ സെല്ലിൽ സ്ഥിതിചെയ്യണം ഞാൻ ഒരു പ്രത്യേക വൈജ്ഞാനിക തലത്തിൽ ഇടുമ്പോൾ പ്രബോധന പ്രവർത്തനവും കോഴ്സ് ഫല പ്രസ്താവനയും ഓർക്കുക കോഴ്സ് ഫലത്തിന്റെ വിജ്ഞാന ഘടകങ്ങളും താഴത്തെ തലത്തിലുള്ള വിജ്ഞാന പ്രക്രിയകളും ശ്രദ്ധിക്കപ്പെടുന്നതായി കണക്കാക്കുന്നു അതിനാൽ ഞാൻ ഒരു ഉയർന്ന വൈജ്ഞാനിക തലത്തിലുള്ള പ്രവർത്തനത്തിന് ശ്രമിക്കുമ്പോൾ ഞാൻ നിബന്ധനകൾ അവതരിപ്പിക്കുകയും ആ പദത്തിന്റെ അർത്ഥമെന്താണെന്നും അടിസ്ഥാന ആശയം എന്താണെന്നും വിശദീകരിക്കുകയും അവസാനം അദ്ദേഹത്തെ ഉയർന്ന വൈജ്ഞാനിക തലത്തിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും അതിനാൽ ആ പരിധിവരെ പൂർണ്ണമായ വിന്യാസത്തിലുള്ള എന്റെ പ്രബോധന പ്രവർത്തനം യാന്ത്രികമായി താഴ്ന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുന്നു മൂല്യനിർണ്ണയത്തിലേക്ക് വരുമ്പോൾ ചില ചെറിയ ശതമാനം മൂല്യനിർണ്ണയ ഇനങ്ങൾ ഒരു നിശ്ചിത CO നേക്കാൾ കുറഞ്ഞ വൈജ്ഞാനിക നിലവാരത്തെ പ്രതിനിധീകരിക്കുന്ന സെല്ലുകളിലായിരിക്കാം മൂല്യനിർണ്ണയ ഇനത്തിന്റെ ഗണ്യമായ ശതമാനം CO യുടെ അതേ സെല്ലിലായിരിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണനയാണ് CO നെക്കുറിച്ചും CO നേട്ടങ്ങളെക്കുറിച്ചും എഴുതാൻ ശ്രമിക്കുമ്പോൾ നാം അത് കൂടുതൽ പരിശോധിക്കും കോഴ്സ് ഡിസൈനിലെ നമ്മുടെ അടുത്ത മൊഡ്യൂളിലും ഇത് വരും അപ്പോൾ ഒരു ടാക്സോണമി ടേബിൾ എന്താണ് ചെയ്യുന്നത് ഒരു കോഴ്സിന്റെ മൂന്ന് ഘടകങ്ങൾക്കിടയിൽ ഒരു നിർദ്ദിഷ്ട വിന്യാസം നേടുന്നതിനും അവസര സംഭവങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഇത് സഹായിക്കും ഞാൻ സൂചിപ്പിച്ചതുപോലെ ടാക്സോണമി പട്ടികയുടെ ശരിയായ സെല്ലുകളിൽ അവ ശരിയായി ടാഗുചെയ്ത് കണ്ടെത്തുന്നതിലൂടെയും പിയർ അവലോകനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു അതിനാൽ സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്യുന്നതിലൂടെ ഞങ്ങൾ എന്തെങ്കിലും അമിതമാക്കുകയോ എന്തെങ്കിലും കുറച്ചു ചെയ്യുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കഴിയും ഒരു ടാക്സോണമി പട്ടിക ഉപയോഗിക്കുന്നതിന്റെ ഗുണം അതാണ് സഹപ്രവർത്തകർക്കിടയിലെ എളുപ്പവഴിയാണിത് നന്നായി ചിട്ടപ്പെടുത്തിയ ടെസ്റ്റ് ബാങ്കുകളുടെ രൂപകൽപ്പനയ്ക്കും അതിന്റെ ഫലമായി സാധുതയും വിശ്വാസ്യതയും ഇത് സഹായിക്കും മൂല്യനിർണ്ണയത്തിന്റെ രണ്ട് പ്രധാന സവിശേഷതകൾ നേടാൻ കഴിയും ഞങ്ങൾ ഇവിടെ പ്രസ്താവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മികച്ച ടെസ്റ്റ് ഐറ്റം ബാങ്ക് രൂപകൽപ്പന ചെയ്യാനും സാധുതയും വിശ്വാസ്യതയും ഉറപ്പാക്കാനും കഴിയുമെന്നാണ് ഇതിനർത്ഥം ഇത് കോഴ്സ് ഡിസൈനിലെ അടുത്ത മൊഡ്യൂളിൽ മാത്രമേ ഞങ്ങൾ വിശദീകരിക്കുകയുള്ളൂ നേരിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് ട്യൂട്ടോറിംഗ് സംഘടിപ്പിക്കുന്നതിനുള്ള ഫലപ്രദമായ ഉപകരണമായും ഇത് പ്രവർത്തിക്കുന്നു ട്യൂട്ടോറിംഗ് എന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് നേരിട്ടുള്ള നിർദ്ദേശമാണ് നിങ്ങൾ വിദ്യാർത്ഥിയെ ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു തുടർന്ന് നിങ്ങൾ നേരിട്ട് സംവദിക്കുന്നു വിദ്യാർത്ഥിക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ടാക്സോണമി ടേബിളിന് നിങ്ങളെ സഹായിക്കാനും ഞാൻ അവനു നൽകേണ്ട അടുത്ത പ്രവർത്തനം എന്താണെന്ന് പറയാനും കഴിയും അതുവഴി അയാൾക്ക് പ്രവർത്തനം ശരിയായി നിർവഹിക്കാൻ കഴിയും അതിനാൽ നമ്മൾ വൈജ്ഞാനികമായി ഒരു ലെവൽ താഴേക്ക് പോകുന്നു അവന് പരിഹരിക്കാനായി അടുത്ത താഴത്തെ നിലയിൽ ചില പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം കൂടാതെ അവന്റെ ഗ്രാഹ്യത്തിലോ കഴിവിലോ ഒരു കുറവ് എവിടെയാണെന്ന് നമുക്ക് മനസിലാക്കാൻ കഴിയും ഇന്റലിജന്റ് ട്യൂട്ടോറിംഗ് ആസൂത്രണം ചെയ്യുന്നതിന് ഇത് ഞങ്ങൾ വളരെയധികം ഉപയോഗിച്ചു അതിനാൽ ടാക്സോണമി പട്ടികയ്ക്ക് മൂന്ന് ഉദ്ദേശ്യങ്ങളും നിറവേറ്റാനാകും നിങ്ങൾക്ക് മുന്നിൽ 6 ബൈ 8 അതായതു 48 സെല്ലുകൾ ഉണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏത് കോഴ്സിനും നിങ്ങൾ എല്ലാ 48 സെല്ലുകളും ഉപയോഗിക്കാൻ സാധ്യതയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനാൽ നിങ്ങൾ പഠിപ്പിച്ചതോ പരിചിതമായതോ ആയ കോഴ്സിന് പ്രസക്തമെന്ന് നിങ്ങൾ കരുതുന്ന സെല്ലുകൾ ടാഗുചെയ്യാനാകുന്ന ഒന്നോ അതിലധികമോ മൂല്യനിർണ്ണയ ഇനങ്ങൾ എഴുതുക നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രത്യേക സെല്ലിൽ ഇടുക അതിനാൽ ഇത് 6 മുതൽ 8 വരെ ആകെ 48 വരെ ആകാം നിങ്ങൾ കോഴ്സ് എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾ 12 16 അല്ലെങ്കിൽ 20 എന്നിവയുമായി ഇടപെടും പ്രസക്തമായ എല്ലാ സെല്ലുകളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും കൂടാതെ തിരിച്ചറിഞ്ഞ ഓരോ സെല്ലിനും ഒന്നോ അതിലധികമോ മൂല്യനിർണ്ണയ ഇനങ്ങൾ ചോദ്യങ്ങൾ എന്നിവ എഴുതുകയും ചെയ്യുന്നു ആൻഡേഴ്സൺ ബ്ലൂം വിൻസെന്റി ടാക്സോണമി ചട്ടക്കൂടിനുള്ളിൽ ഒരു കോഴ്സിന്റെ ഔട്ട്കംസ് അഥവാ ഫലങ്ങൾ എങ്ങനെ എഴുതാമെന്ന് അടുത്ത യൂണിറ്റിൽ നമുക്ക് മനസ്സിലാകും ഈ പ്രത്യേക മൊഡ്യൂളിന്റെ ലക്ഷ്യം തന്നെ അതാണ് എബിവി ടാക്സോണമി ചട്ടക്കൂടിൽ ഒരു കോഴ്സിനായി കോഴ്സ് ഔട്ട്കംസ് എങ്ങനെ എഴുതാം വളരെയധികം നന്ദി